ഇത് നമ്മളെ അടുത്ത ഉപവിഭാഗത്തിലേക്ക് കൊണ്ടുപോകുന്നു സംയോജനത്തിന്റെ ആ വിപുലമായ ആശയത്തിലേക്ക് എത്താൻ ഒരു ഫംഗ്ഷൻ ശരി എങ്ങനെ ഇന്റർപോളേറ്റ് ചെയ്യാം എന്നതിലേക്ക് ഒരു ചെറിയ വഴിത്തിരിവ് നടത്തേണ്ടതുണ്ട് വീണ്ടും ഇത് നിങ്ങളിൽ പലർക്കും പരിചിതമായ കാര്യമാണ് ഞങ്ങൾ ഇത് രൂപപ്പെടുത്തും ഞങ്ങൾ സംയോജിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഫംഗ്ഷനുകളെക്കുറിച്ചാണ് ഞങ്ങൾ വീണ്ടും സംസാരിക്കുന്നത് പക്ഷേ അത് വിശകലനപരമായി ചെയ്യാൻ കഴിയില്ല അതാണ് ഞങ്ങളുടെ ഏകദേശ കണക്ക് ഇവിടെ വളരെ ശക്തമായ ഒരു സിദ്ധാന്തം ഉണ്ട് അതിനെ ഇവിടെ നീല ഫോണ്ടിൽ വെയർസ്ട്രാസ് ഏകദേശ സിദ്ധാന്തം എന്ന് വിളിക്കുന്നു എനിക്ക് ഒരു തുടർച്ചയായ യഥാർത്ഥ മൂല്യമുള്ള ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ അത് സംയോജിപ്പിക്കണമെന്ന് അടിസ്ഥാനപരമായി പറയുന്നു അതിനാൽ ഫംഗ്ഷനിൽ തമാശയുള്ള കുതിച്ചുചാട്ടങ്ങളില്ലാതെ നന്നായി പെരുമാറണം നിങ്ങൾ എനിക്ക് കുറച്ച് ഇടവേള നൽകി അപ്പോൾ നിങ്ങൾ എന്നോട് നിങ്ങളുടെ സഹിഷ്ണുത പറയുകയാണെങ്കിൽ നമുക്ക് ചില ചെറിയ സംഖ്യകൾ epsilon എന്ന് പറയാം ഈ സമഗ്രമായ ok എന്നതിനുള്ളിൽ എല്ലാ x നും നൽകിയിരിക്കുന്ന ടോളറൻസിനേക്കാൾ ഏകദേശം f മുതൽ താഴെ വരെ ഒരു പോളിനോമിയൽ ഫംഗ്ഷൻ p നിലവിലുണ്ട് അതിനാൽ വീയർസ്ട്രാസിന്റെ പേരിലാണ് ഇത് അറിയപ്പെടുന്നത് അതിനാൽ ഈ സിദ്ധാന്തത്തിന്റെ ശക്തി നിങ്ങൾക്ക് കാണാൻ കഴിയും അത് നിങ്ങൾക്ക് അറിയാവുന്ന ഏത് ഫംഗ്ഷനും തരൂ എന്ന് എന്നോട് പറയുന്നു അത് ചില ഹാങ്കെൽ ഫംഗ്ഷനായിരിക്കാം ബെസൽ ഫംഗ്ഷൻ ഏതെങ്കിലും സങ്കീർണ്ണമായ ഫംഗ്ഷനായിരിക്കാം ഇത് നിങ്ങളോട് എന്താണ് പറയുന്നത് ഈ വ്യക്തിയെ വളരെ നന്നായി ഏകദേശം കണക്കാക്കുന്ന ഒരു പോളിനോമിയൽ ഫംഗ്ഷൻ എനിക്ക് നിങ്ങളെ കണ്ടെത്താൻ കഴിയും എത്ര നന്നായി അത് എന്റെ ഇഷ്ടമാണ് നിങ്ങൾ എപ്സിലോൺ വ്യക്തമാക്കുകയാണെങ്കിൽ ഈ ഫംഗ്ഷൻ ഇവിടെ വളരെ നന്നായിരിക്കുന്നു അതിനാൽ ഞങ്ങൾക്കറിയാമെന്ന് നിങ്ങൾ കണ്ടതിൽ അതിശയിക്കാനില്ല ഉദാഹരണത്തിന് രണ്ട് പോയിന്റുകൾക്കൊപ്പം ഞാൻ ഇവിടെ രണ്ട് പോയിന്റുകൾ എടുത്താൽ എനിക്ക് എന്തുചെയ്യാൻ കഴിയും രണ്ട് പോയിന്റുകൾ ഉപയോഗിച്ച് എനിക്ക് ഏത് തരത്തിലുള്ള പോളിനോമിയലാണ് അനുയോജ്യമാകുക വിദ്യാർത്ഥി ലീനിയർ രേഖീയ വലത് അതിനാൽ ഇതൊരു വരയാണ് മൂന്ന് പോയിന്റുകൾ എനിക്ക് ഒരു പരവലയവും മറ്റും ചെയ്യാൻ കഴിയും അതിനാൽ നാല് പോയിന്റുകൾ നിങ്ങൾക്കറിയാം അതിനാൽ അടിസ്ഥാനപരമായി ഞാൻ N എന്ന ക്രമത്തിലേക്ക് പോകുമ്പോൾ N പോയിന്റുകളിൽ ഒരു പോളിനോമിയൽ ഇന്റർപോളേറ്റ് ചെയ്യണമെന്ന് ഞാൻ പറയുകയാണെങ്കിൽ പോളിനോമിയലിന്റെ ഡിഗ്രി എന്തായിരിക്കും N മൈനസ് 1 വലത് N ന് തുല്യമായ 2 ന് പോളിനോമിയലിന്റെ ക്രമം എന്താണ് അതിനാൽ എല്ലായ്പ്പോഴും നിങ്ങൾ 1 ഡിഗ്രി വലത് വ്യത്യാസത്തിലാണ് അതിനാൽ എനിക്ക് N 1 ഓർഡറിന്റെ പോളി ഫിറ്റ് ചെയ്യാൻ കഴിയും അതിനാൽ ഇത് ചെയ്യുന്നതിന് ഒരു ചിട്ടയായ മാർഗമുണ്ട് അത് ഞങ്ങൾ സംസാരിക്കും എന്നാൽ ഞാൻ നിങ്ങൾക്ക് മൂന്ന് പോയിന്റുകൾ നൽകി ഒരു പരവലയ ഘടിപ്പിക്കാൻ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെട്ടു എന്ന് കരുതി അതിനെക്കുറിച്ച് ചിന്തിക്കുക അതിനാൽ നിങ്ങൾ എന്തു ചെയ്യും ഞാൻ നിങ്ങൾക്ക് മൂന്ന് പോയിന്റുകൾ നൽകി ശരി അതിനാൽ ഈ മൂന്ന് പോയിന്റുകൾ ഞാൻ നിങ്ങൾക്ക് നൽകി ഈ പോയിന്റിലൂടെയും ഫംഗ്ഷനുകളിലൂടെയും എനിക്ക് ഒരു പരാബോള അനുയോജ്യമാണെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു ഈ പോയിന്റുകളിലെ ഫംഗ്ഷൻ മൂല്യങ്ങളിലൂടെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അതിനാൽ നിങ്ങൾ എന്തു ചെയ്യും വിദ്യാർത്ഥി സർ ഞങ്ങൾക്ക് മൂന്ന് പോയിന്റുണ്ട് അതെ നിങ്ങൾക്ക് മൂന്ന് പോയിന്റുകൾ ഉണ്ട് അതിനാൽ നിങ്ങൾക്ക് പ്രവർത്തനങ്ങൾ ഉണ്ട് എന്നാൽ ഈ പോയിന്റുകൾ എവിടെയും ആയിരിക്കാം അതായത് അവ ഒരേപോലെ ഇടം പിടിക്കേണ്ടതില്ല അവ ഇവിടെ ഒരു പോയിന്റും ഇവിടെ ഒരു പോയിന്റും ഇവിടെ ഒരു പോയിന്റും ആകാം ഒരു പരവലയത്തിന്റെ സമവാക്യം അനുമാനിക്കുക അതിനാൽ എനിക്ക് അത് പറയാൻ കഴിയും അതിനാൽ p ശരിയാണെന്ന് പറയുക ഇപ്പോൾ എനിക്കറിയാം നിങ്ങൾക്ക് നൽകിയ ഫംഗ്ഷന്റെ മൂല്യം ഞാൻ നിങ്ങൾക്ക് നൽകി അതിനാൽ നിങ്ങൾക്ക് ഇത് ലഭിക്കും ഇതുപോലെ എനിക്ക് മൂന്ന് വേരിയബിളുകളിൽ മൂന്ന് സമവാക്യങ്ങൾ ലഭിക്കും ഇതിനുള്ള പരിഹാരം എനിക്ക് ശരി നൽകും അതിനാൽ സമാനമായി ഒരു കൂട്ടം n പോയിന്റുകൾക്കായി എനിക്ക് ഈ പ്രക്രിയ പുനർനിർമ്മിക്കാൻ കഴിയും അതിനാൽ ഈ n മൂല്യങ്ങൾ ലഭിക്കുന്നതിന് ഞാൻ n സമവാക്യങ്ങളുടെ ഒരു സിസ്റ്റം പരിഹരിക്കുകയാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ കഴിയുമെന്ന് മാറുന്നു ഒരു പ്രശ്നവുമില്ലാത്തതുപോലെ ഈ ബഹുപദം നിർമ്മിക്കുന്നതിന് കൂടുതൽ സമർത്ഥമായ ഒരു മാർഗമുണ്ട് അത് ലഗ്രാഞ്ച് എന്ന പ്രശസ്തനായ ശാസ്ത്രജ്ഞന്റെ പേരിന് ശേഷം പോകുന്നു അതിനാൽ ഈ ലഗ്രാഞ്ച് പോളിനോമിയലുകൾ ഞാൻ അവ ഇവിടെ എഴുതാം അതിനാൽ നിങ്ങൾക്ക് ഉണ്ട് അതിനാൽ ഞാൻ ഫോം എഴുതാം തുടർന്ന് ഞങ്ങൾ അത് അന്വേഷിക്കും അതിനാൽ ഈ വലിയ പൈ എന്നത് ഉൽപ്പന്നം ശരിയാണ് അതിനാൽ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇത് നോക്കൂ ഞാൻ ഇവിടെ ചില ഫംഗ്ഷൻ നിർമ്മിച്ചിട്ടുണ്ട് അതിനാൽ അതിന്റെ ഉൽപ്പന്നം ഉൽപ്പന്നത്തിൽ എത്ര നിബന്ധനകൾ ഉണ്ട് ശരിയായതിനാൽ ഉൽപ്പന്നത്തിൽ N 1 നിബന്ധനകൾ ഉണ്ട് അതിനാൽ N 1 നിബന്ധനകളുടെ ഒരു ഉൽപ്പന്നമുണ്ട് അതിനാൽ ഇത് ഏത് ഡിഗ്രിയുടെ ബഹുപദമാണ് വിദ്യാർത്ഥി N 1 N 1 ഉണ്ട് N 1 പദങ്ങൾ ഓരോ പദത്തിനും x മൈനസ് എന്തെങ്കിലും ഉണ്ട് അതിനാൽ എല്ലാ ഡിഗ്രികളിലും N 1 ആയിരിക്കും ഇപ്പോൾ ഈ ഫംഗ്ഷൻ വളരെ രസകരമായി തോന്നുന്നു ഫംഗ്ഷന്റെ മൂല്യം എന്താണെന്ന് ഞാൻ നിങ്ങളോട് ചോദിച്ചാൽ അതിന്റെ മൂല്യം എന്താണ് ഓരോ പദവും റദ്ദാക്കുന്നു അതിന്റെ മൂല്യം 1 ശരിയാണ് ഈ മൂല്യം എന്താണ് 0 വലത് അതിനാൽ ഇവിടെ ഈ ഫംഗ്ഷൻ ഉപയോഗിക്കുമ്പോൾ ഇവിടെ ലഗ്രാഞ്ച് പോളിനോമിയൽ എന്ന് വിളിക്കപ്പെടുന്ന ഇത് ഉപയോഗിച്ച് ഞാൻ എഴുതുകയാണെങ്കിൽ എനിക്ക് ഇതുപോലെ f എഴുതാമോ അതിനാൽ എനിക്ക് ഇത് ഒരു ആയി എഴുതാം അതിനാൽ ഒന്നാമതായി ഇത് ഒരു ഈ പദപ്രയോഗമാണോ ഞാൻ ഇവിടെ വലതുവശത്ത് എഴുതിയത് ഇത് ഒരു ബഹുപദ ഫംഗ്ഷനാണോ നമുക്ക് ഓരോന്നായി നോക്കാം എന്താണ് ഇയാൾ ഇത് സ്ഥിരമാണോ അതോ x ന്റെ ഫംഗ്ഷനായി ഒരു വേരിയബിളാണോ ഇത് iഎന്താണ് ഈ വാദം ഒരു നിശ്ചിത പോയിന്റാണ് N പോയിന്റുകൾ ഉണ്ട് ഇതാണ് ith പോയിന്റ് എടുക്കുന്നത് അതിനാൽ ഇവിടെയുള്ള ഈ പദം സ്ഥിരമാണ് അടുത്ത ടേം ഇവിടെ എന്താണ് ഇത് ഒരു ബഹുപദ ക്രമം N 1 ആണ് അതിനാൽ ഇതൊരു പോളി ഓർഡർ N 1 ശരിയാണ് N 1 ക്രമത്തിന്റെ എത്രയോ പോളിനോമിയലുകളുടെ ആകെത്തുക എന്താണ് N 1 മികച്ച വലത് വശത്ത് കുറവായിരിക്കാം എന്നാൽ ഏറ്റവും മികച്ചത് N 1 ആയിരിക്കും അതിനാൽ ഞാൻ ചെയ്തത് N 1 എന്ന ക്രമത്തിലുള്ള ഒരു ഫംഗ്ഷൻ ഞാൻ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട് അതിനാൽ ഇതിന് N 1 ഓർഡർ ഉണ്ട് കൂടാതെ നൽകിയിരിക്കുന്ന നോഡുകളിലെ ഫംഗ്ഷന്റെ മൂല്യവുമായി ഇത് യോജിക്കുന്നു അതിനാൽ ഞാൻ നിങ്ങൾക്ക് N നോഡുകൾ ശരിയാക്കി അതിനാൽ N നോഡുകൾ ഇതാണ് അതിനാൽ ഞങ്ങൾ ഈ പ്രോപ്പർട്ടി ഇവിടെ ഉപയോഗിക്കും അതിനാൽ ഈ സംഗ്രഹത്തിൽ N നിബന്ധനകൾ ഉണ്ട് സംഗ്രഹത്തിലെ ഈ N നിബന്ധനകളുടെ ഏത് പദം നിലനിൽക്കും ഒരു പദം മാത്രമേ നിലനിൽക്കൂ കാരണം ഈ ലഗ്രാഞ്ച് പോളിനോമിയലുകൾ അവ ഒന്നായിരിക്കുന്നതിനാൽ ഈ i ഈ i ന് തുല്യമാണ് എന്നാൽ ഈ i j എന്നിവ വ്യത്യസ്തമാണെങ്കിൽ അത് 0 ശരിയാകും അതിനാൽ ഇവിടെയുള്ള ഈ സംഗ്രഹത്തിൽ ഞാൻ മാറ്റിസ്ഥാപിക്കുമ്പോൾ നിലനിൽക്കുന്ന ഒരു പദമേ ഉള്ളൂ ആ പദത്തിന് എന്റെ മൂല്യം ഇവിടെ നിന്ന് 1 ആയിരിക്കും ഇവിടെ അവശേഷിക്കുന്നത് ശരിയാണ് അതിനാൽ എന്റെ ഒറിജിനൽ ഫംഗ്ഷൻ എഫ് ഒരു പോളിനോമിയൽ ഫംഗ്ഷൻ ആയിരുന്നില്ല അത് തുടർച്ചയായ യഥാർത്ഥ മൂല്യമുള്ള ഫംഗ്ഷനായിരുന്നു അതിൽ നിന്നാണ് ഞാൻ ഇവിടെ ഈ ആളെ സൃഷ്ടിച്ചത് സർക്കിളിലെ ഒരു പോളിനോമിയൽ ഫംഗ്ഷൻ ഒരു പോളിനോമിയൽ ഫംഗ്ഷനാണ് ഈ പോളിനോമിയൽ ഫംഗ്ഷൻ ഇത് N പോയിന്റിൽ ഈ അനിയന്ത്രിതമായ ഫംഗ്ഷന്റെ മൂല്യവുമായി യോജിക്കുന്നു ഇത് ക്രമം N 1 ന്റെ ഒരു പോളിനോമിയലാണ് അതിനാൽ ഇവിടെ സമവാക്യങ്ങളുടെ ഒരു സംവിധാനം പരിഹരിച്ചുകൊണ്ട് നിങ്ങൾ അൽപ്പം വിചിത്രമായ രീതിയിൽ ചെയ്തത് നിങ്ങൾക്ക് ഇവിടെ കുറച്ചുകൂടി ചിട്ടയായ രീതിയിൽ ചെയ്യാൻ കഴിയും അതിനാൽ ഞങ്ങൾ ഇത് വീണ്ടും ഉപയോഗിക്കുന്നതിന്റെ കാരണം ഇതാണ് ഞാൻ അർത്ഥമാക്കുന്നത് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഇത് ഗണിതത്തെ വളരെ ലളിതമാക്കുന്നു ഈ ഫംഗ്ഷൻ സൃഷ്ടിച്ച രീതി നോക്കൂ അത് വളരെ മനോഹരമാണ് നിങ്ങൾ അത് നോക്കുന്ന ഘട്ടത്തിൽ ഒഴികെ മറ്റെല്ലാ പോയിന്റുകളിലും ഇത് 0 ലേക്ക് പോകുന്നു അതിനാൽ അത് ചെയ്തുകഴിഞ്ഞാൽ നമുക്ക് കുറച്ച് മുന്നോട്ട് പോകാം അതിനാൽ ഒരു ഫംഗ്ഷൻ ശരിയായ രീതിയിൽ സമന്വയിപ്പിക്കാൻ ഞങ്ങൾ ആഗ്രഹിച്ചു അതിനാൽ നമുക്ക് വിശകലനപരമായി സംയോജിപ്പിക്കാൻ കഴിയാത്ത പ്രവർത്തനമാണിത് അതിനാൽ ഘട്ടം 1 ഞങ്ങൾ അതിന്റെ ചില ഏകദേശ രൂപരേഖ സൃഷ്ടിച്ചു നിങ്ങൾ എനിക്ക് N പോയിന്റുകൾ നൽകിയാൽ അതിന്റെ ഒരു പോളിനോമിയൽ ഏകദേശം ഞാൻ നിങ്ങൾക്ക് N 1 എന്ന ക്രമത്തിന്റെ ഒരു ബഹുപദം നൽകുന്നു കാരണം അതാണ് എനിക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും മികച്ചത് അതിനാൽ എനിക്ക് മൂന്ന് പോയിന്റുകൾ തരൂ എനിക്ക് നിങ്ങൾക്ക് ഒരു പരവലയം നൽകാം എനിക്ക് നിങ്ങൾക്ക് ഒരു ക്യൂബിക് അവകാശം നൽകാൻ കഴിയില്ല കാരണം മതിയായ വിവരങ്ങൾ അവിടെ ഇല്ല അടുത്തതായി ഞങ്ങൾ അത് ശരിയായി സംയോജിപ്പിക്കാൻ ശ്രമിക്കും അപ്പോൾ ഫംഗ്ഷനെ നേരിട്ട് സംയോജിപ്പിക്കുന്ന ഫംഗ്ഷനെ നേരിട്ട് ഏകദേശിക്കുന്നതിനുപകരം ഞങ്ങൾ ആദ്യം എടുത്തത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ കരുതുന്നു എന്തുകൊണ്ടാണ് ഞങ്ങൾ ഈ മാറ്റം ഒരു പോളിനോമിയലാക്കിയത് ഇത് ചെയ്യുകയായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം കൃത്യമായി പറഞ്ഞാൽ ഇത് എങ്ങനെ സംയോജിപ്പിക്കണമെന്ന് എനിക്കറിയില്ല കാരണം ഇത് സംയോജിപ്പിക്കാൻ പറ്റാത്തതാണ് പക്ഷേ ഒരു പോളിനോമിയലും പോളിനോമിയലും ഉപയോഗിച്ച് ഞാൻ ഇത് ഏകദേശം കണക്കാക്കുന്നു നമുക്ക് വലത് കൈകൊണ്ട് സംയോജിപ്പിക്കാമെന്ന് എനിക്കറിയാം അതിനാൽ ഒരു നല്ല ഏകദേശ കണക്ക് കണ്ടെത്തുക എന്നതായിരുന്നു ഘട്ടം 1 അതിനാൽ ഇപ്പോൾ നമുക്ക് വ്യക്തമായത് ചെയ്യാം എനിക്കുള്ള ഈ പദപ്രയോഗം സമന്വയിപ്പിക്കാം അതിനാൽ ഇതായിരുന്നു എന്റെ യഥാർത്ഥ പ്രവർത്തനം ഇത് ഒരു ഏകദേശ കണക്കാണെന്ന് ശ്രദ്ധിക്കുക ഇത് ഓർഡർ N 1 ന്റെ ഏകദേശ കണക്കാണ് അത് ഞങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്ന ഫംഗ്ഷനാണ് ഞങ്ങൾ ഈ N ഇവിടെ ഇടും അതിനാൽ ഈ പദം ഇവിടെയുണ്ടെങ്കിൽ ഞാൻ മുമ്പ് ഉപയോഗിച്ചിരുന്നതിനെ മാറ്റിസ്ഥാപിക്കാൻ പോകുന്നു അതിനാൽ അത് ശരിയാകും അതിനാൽ ഞാൻ മുമ്പ് ചെയ്തത് ഞാൻ തിരുത്തിയെഴുതി ഇത് ഏകീകരണ ചിഹ്നമാണെന്ന് ഓർമ്മിക്കുക സംയോജനത്തിന്റെ വേരിയബിൾ x ആണ് അപ്പോൾ ഞാൻ അടുത്തതായി എന്താണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾ കരുതുന്നു എനിക്ക് ഈ പദപ്രയോഗം ലളിതമാക്കാമോ അവിഭാജ്യ ചിഹ്നം എവിടെയെങ്കിലും നീങ്ങാൻ കഴിയുമോ ഈ ചേട്ടൻ എന്താ ഇവൻ ഈ മനുഷ്യൻ സ്ഥിരതയുള്ള ആളാണ് അതിനാൽ എനിക്ക് ഈ അവിഭാജ്യ ചിഹ്നം ഇവിടെ നിന്ന് അകത്തേക്ക് നീക്കാൻ കഴിയും അതിനാൽ ഞാൻ ഇത് ശരിയാണെന്ന് എഴുതാം ഞാൻ ഇവിടെ എഴുതിയ ഈ പദം ഇവിടെയുണ്ട് അത് ഫംഗ്ഷന്റെ തിരഞ്ഞെടുപ്പിനെ ആശ്രയിച്ചിരിക്കുന്നു ശരിയല്ല ഇവിടെ ശരിയല്ല അതിനാൽ അത് കാണുക അതിന്റെ ശക്തി അതിനാൽ ഇപ്പോൾ ഈ പദപ്രയോഗം ഇവിടെ മറ്റെന്തെങ്കിലും ശരിയാണ് എന്ന നിലയിൽ എനിക്ക് ഈ പദപ്രയോഗം മാറ്റിയെഴുതാം അപ്പോൾ ഞങ്ങൾ ചെയ്തതിനെ നിങ്ങൾ ഒരു ചതുര്ത്ഭുത നിയമം എന്ന് വിളിക്കുമോ ഇത് ഒരു ക്വാഡ്രേച്ചർ റൂളാണ് കാരണം ഇത് എനിക്ക് അറിയേണ്ടതെല്ലാം എന്നോട് പറയുന്ന ഇന്റഗ്രലിന്റെ ഏകദേശ കണക്ക് നൽകുന്നു വിദ്യാർത്ഥി പ്രവർത്തന മൂല്യം കുറച്ച് വ്യതിരിക്തമായ പോയിന്റുകളിലെ പ്രവർത്തന മൂല്യം അതിനാൽ ഒരു ക്വാഡ്രേച്ചർ റൂളിന്റെ പ്രധാന ഭാഗമായ ഫംഗ്ഷൻ വലത്തെ ആശ്രയിക്കാത്ത നോഡുകളും വെയ്റ്റുകളും ഇവയാണ് തൂക്കങ്ങൾ തിരഞ്ഞെടുത്ത ഫംഗ്ഷനിൽ നിന്ന് സ്വതന്ത്രമാണ് അതിനാൽ മറ്റൊരു നേട്ടം ഇതാണ് നിങ്ങൾക്ക് ഇത് മുൻകൂട്ടി കണക്കാക്കാനും സൂക്ഷിക്കാനും കഴിയും നിങ്ങൾക്ക് ഇത് ഒരു പട്ടികയായി സൂക്ഷിക്കാൻ കഴിയും നിങ്ങൾക്ക് ഒരു ഇന്റഗ്രൽ നൽകുമ്പോൾ അത് പരിഹരിക്കേണ്ടതില്ല അത് അതല്ല നിങ്ങൾ കണക്കുകൂട്ടാൻ തുടങ്ങുന്ന സമയം നിങ്ങൾക്ക് മുൻകൂട്ടി കണക്കുകൂട്ടി സൂക്ഷിക്കാം വാസ്തവത്തിൽ നിരവധി ലൈബ്രറികൾ ഗണിതശാസ്ത്ര ഗ്രന്ഥശാലകൾ ഉണ്ട് അത് വ്യത്യസ്തമായ ഇടവേളകളോ മറ്റെന്തെങ്കിലും ശരിയായതോ ആയ w യുടെ മൂല്യങ്ങൾ നിങ്ങളെ അറിയിക്കും അതിനാൽ ഇവ മുൻകൂട്ടി കണക്കാക്കാം അതിനാൽ നിങ്ങളുടെ പ്രവർത്തനം ലഭിക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് സംയോജിപ്പിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് നോഡുകൾ ആ നോഡുകളുടെ ഫംഗ്ഷൻ മൂല്യങ്ങൾ കണക്കാക്കുന്നത് പ്രീ കംപ്യൂട്ടഡ് വെയ്റ്റുകൾ കൊണ്ട് ഗുണിക്കുക എന്നതാണ് അതിനാൽ ഇത് നമ്മൾ മുൻകൂട്ടി കണക്കാക്കിയ പിഴ ശരിയാക്കണം അതിനാൽ N 1 ഓർഡർ ചെയ്യുന്നതിനുള്ള ഒരു ഫംഗ്ഷന്റെ ഏകദേശ അവിഭാജ്യ കണക്ക് ഞങ്ങൾ കണക്കാക്കിയ ചിട്ടയായ മാർഗം ഇത് ഞങ്ങൾക്ക് നൽകി അതിന് നമുക്ക് എത്ര പോയിന്റുകൾ ആവശ്യമാണ് N പോയിന്റുകൾ അതിനാൽ ഇത് ഇന്റർപോളേഷൻ പോകുന്നിടത്തോളം ആണ് ഇപ്പോൾ ഉണ്ട് ഫലം ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഇത് കൂടുതൽ മികച്ചതാക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുവെന്ന് അറിയുമ്പോൾ നിങ്ങൾ ആശ്ചര്യപ്പെടും അതിനാൽ ഇതിലും മികച്ചത് എന്താണ് അർത്ഥമാക്കുന്നത് എന്റെ ഫംഗ്ഷൻ മൂല്യനിർണ്ണയം നടത്താൻ ഞാൻ ആഗ്രഹിക്കുന്ന പോയിന്റുകളുടെ എണ്ണം നിശ്ചിത N പോയിന്റാണെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നുവെന്ന് കരുതുക അതിൽ നിങ്ങൾക്ക് മറ്റ് വഴികളൊന്നുമില്ല ബഹുപദത്തിന്റെ ഉയർന്ന ക്രമത്തിന് കൃത്യമായ ഒരു ഉത്തരം നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും നൽകാമോ ശരിയായ ക്രമമില്ല N 1 ആണ് എനിക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും മികച്ചത്